ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെക്കുറിച്ചുള്ള അടുത്ത സെഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിശീലനത്തെയും വികസനത്തെയും കുറിച്ച് കൂടുതൽ സംസാരിക്കും എന്റെ പേര് ആരാധ്ന മാലിക് ഞാൻ ഐഐടി ഖരഗ്പൂരിലെ വിനോദ് ഗുപ്ത സ്കൂൾ ഓഫ് മാനേജ്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് അതിനാൽ അവസാന സെഷനിൽ നമ്മൾ പരിശീലനത്തെയും വികസനത്തെയും കുറിച്ച് സംസാരിച്ചു കൂടാതെ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പരിശീലനവുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് ഇന്ന് ഒരു ഓർഗനൈസേഷനിലെ പ്രത്യേക പരിശീലന സാങ്കേതികതകളെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കും ഇന്ന് ക്ലാസ്സിനായി ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന സ്രോതസ്സുകൾ ഈ സ്ലൈഡുകൾ നിർമ്മിക്കാൻ ഞാൻ നേരത്തെ ഉപയോഗിച്ച വിവിധ സ്രോതസ്സുകൾ വിവിധ പുസ്തകങ്ങൾ എന്നിവ ഇവയാണ് അതിനാൽ ഇന്നലെ നമ്മൾ സംസാരിച്ചതിനെ കുറിച്ച് അൽപ്പം പുനരവലോകനം ചെയ്യാം പരിശീലന പ്രക്രിയ ഞാൻ നിങ്ങളോടു പറഞ്ഞതുപോലെ പുതിയതോ നിലവിലുള്ളതോ ആയ ജീവനക്കാർക്ക് അവരുടെ ജോലി ചെയ്യാനുള്ള കഴിവുകൾ നൽകുന്നു അതാണ് പരിശീലനത്തിന്റെ അർത്ഥം അശ്രദ്ധമായ പരിശീലനം അശ്രദ്ധ പരിശീലനത്തിന്റെ നിർവചനം നമ്മൾ ചർച്ച ചെയ്തിരുന്നു കൂടാതെ ഒരാൾക്ക് എങ്ങനെ തന്ത്രവും പരിശീലനവും വിന്യസിക്കാം എന്നതിനെക്കുറിച്ചും സംസാരിച്ചു പരിശീലനത്തിലെ വെല്ലുവിളികൾ ജീവനക്കാരെ പരിശീലിപ്പിക്കുന്നതിൽ ഒരാൾക്ക് നേരിടാൻ കഴിയുന്ന ചില വെല്ലുവിളികളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു പിന്നെ നമ്മൾ പണത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു പുതിയ ജീവനക്കാരെ പരിശീലിപ്പിക്കുമ്പോഴോ നിലവിലെ ജീവനക്കാരെ വീണ്ടും പരിശീലിപ്പിക്കുമ്പോഴോ പരിശീലകർ സാധാരണയായി അഭിമുഖീകരിക്കുന്ന മറ്റ് വെല്ലുവിളികളെയും ആശയക്കുഴപ്പങ്ങളെയും കുറിച്ച് നമ്മൾ സംസാരിച്ചു കൂടാതെ ട്രെയിനിങ് നീഡ്സ് അസ്സെസ്സ്മെന്റ് മോഡൽ വിശദമായി ചർച്ച ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അതിനാൽ നമുക്ക് ഇതു തുടരാം ജീവനക്കാർക്ക് ഏത് തരത്തിലുള്ള പരിശീലനവും നൽകുന്നതിനുള്ള ആദ്യപടിയാണ് പരിശീലന ആവശ്യകതകൾ വിലയിരുത്തൽ കൂടാതെ പരിസ്ഥിതിയിൽ നിന്ന് ജീവനക്കാരുടെ ആവശ്യങ്ങൾ വിലയിരുത്തുന്നത് കണ്ടെത്തേണ്ടതുണ്ട് ഒരു സ്ഥാപനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിശീലനത്തിന്റെ ആവശ്യകത പരിസ്ഥിതിചിലപ്പോൾ സൂചിപ്പിക്കുകയും നിർണയിക്കുകയും ചെയ്യുന്നു അതിനാൽ പരിശീലന ആവശ്യകതയെ സ്വാധിനിക്കാൻ കഴിയുന്ന പാരിസ്ഥിതിക ഘടകങ്ങൾ ഓർഗനൈസേഷനിൽ ഉള്ള യൂണിയനുകൾ ആണ് അതിനർത്ഥം ജീവനക്കാർ ഒത്തുചേരുന്നു അവർക്ക് ചില ആവശ്യങ്ങളുണ്ട് അവർ ഓർഗനൈസേഷനോടും സീനിയർ മാനേജുമെന്റിനോടും ആശയവിനിമയം നടത്തുന്നു തുടർന്ന് കൂടുതൽ പരിശീലനത്തിന്റെ ആവശ്യകത സമ്പദ്വ്യവസ്ഥയ്ക്ക് നിർണ്ണയിക്കാനാകും അതിനാൽ കൂടുതൽ ജീവനക്കാരെ നിയമിക്കേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ വൈവിധ്യവൽക്കരിക്കേണ്ട ആവശ്യമുണ്ടാകാം വിഭവങ്ങൾ വെട്ടിക്കുറയ്ക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടാകാം വിവിധ ജീവനക്കാർക്കിടയിൽ ജോലികൾ മാറ്റേണ്ടതിന്റെ ആവശ്യകതയുണ്ടാകാം അതിനാൽ അത് സമ്പദ്വ്യവസ്ഥയ്ക്ക് നിയന്ത്രിക്കാനാകും പിന്നെ നിയമങ്ങൾ ഞങ്ങൾക്ക് തുല്യ അവസര നിയമങ്ങൾ ഉണ്ട് നിയമങ്ങൾ വളർന്നുവരുമ്പോൾ ഭിന്നശേഷിയുള്ളവരോ അല്ലെങ്കിൽ വളരെ നല്ല വിഭവങ്ങൾ ലഭ്യമല്ലാത്തവരോ ആയ ആളുകളെ മുഖ്യധാരയാക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുന്നു അതിനാൽ വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാർക്കും വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള വിവിധ ജീവനക്കാർക്കും തുല്യ അവസരം നൽകണം എന്ന് നിയമങ്ങൾ നിർബന്ധിക്കുന്നു കൂടാതെ ഈ നിയമങ്ങൾ കൂടുതൽ പരിശീലനത്തിന്റെ ആവശ്യകതയെ നിർബന്ധിക്കുന്നു ഇത് ഞങ്ങളുടെ ഓർഗനൈസേഷനുകളെ വിശകലനം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് നയിക്കുന്നു കൂടാതെ ഓർഗനൈസേഷനുകൾക്കുള്ളിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ പുനഃപരിശോധിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട് കൂടാതെ നമുക്ക് എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തുക അതിനാൽ ഈ വിഭവങ്ങൾ വിവിധ ജീവനക്കാരുടെ ഗ്രൂപ്പുകൾക്ക് പുനർവിനിയോഗം ചെയ്യാനോ അല്ലെങ്കിൽ വീണ്ടും അസൈൻ ചെയ്യാനോ കഴിയുമോ തുടർന്ന് ഇത് പരിശീലന ആവശ്യങ്ങൾക്ക് കാരണമാകുന്നു അതിനാൽ പരിസ്ഥിതിയുടെ ആവശ്യകതകൾ ലക്ഷ്യങ്ങളുടെ വിശകലനം ഓർഗനൈസേഷന്റെ നിലവിലെ ലക്ഷ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ അല്ലെങ്കിൽ സാമൂഹിക നിയമപരമായ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ അന്തരീക്ഷത്തിന്റെ അല്ലെങ്കിൽ സാമ്പത്തിക അന്തരീക്ഷത്തിന്റെ വെളിച്ചത്തിൽ ഈ ലക്ഷ്യങ്ങൾ പുനഃപരിശോധിക്കേണ്ടതുണ്ട് നിലവിലെ വിഭവങ്ങളിൽ നിന്ന് ഒരു സ്റ്റോക്ക് എടുക്കേണ്ടതിനാൽ വിഭവങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് കൂടാതെ വിഭവങ്ങൾ അനുവദിക്കുകയോ വീണ്ടും അസൈൻ ചെയ്യുകയോ ചെയ്യേണ്ടതുണ്ട് കൂടാതെ അത് ഒരു പരിശീലന ആവശ്യത്തിന് കാരണമാകുന്നു കൂടാതെ പരിശീലന ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യേണ്ടതുണ്ട് കൂടാതെ ഒരു നിർദ്ദിഷ്ട പ്രവർത്തനം കാര്യക്ഷമതയ്ക്ക് ആവശ്യമാണ് പരിശീലനത്തിന്റെ ആവശ്യമില്ലെങ്കിൽ ഒരാൾ ബദൽ പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഇവിടെ പരിശീലന ആവശ്യം നിലവിലുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുക അത് നിലവിലില്ലെങ്കിൽ നിങ്ങൾ ഇതര പരിഹാരങ്ങളിലേക്ക് നീങ്ങുക തുടർന്ന് കാര്യക്ഷമതയ്ക്കുള്ള ആവശ്യകത വിലയിരുത്തി അത് അവിടെ ഉണ്ടെന്ന് കണ്ടെത്തി അപ്പോൾ വീണ്ടും ജീവനക്കാരെ പരിശീലിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ കാര്യക്ഷമതയോടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ബദൽ പരിഹാരങ്ങൾ ഉപയോഗിക്കാമോ എന്നത് ചോദിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഓർഗനൈസേഷൻ അതിന്റെ പൂർണ്ണ ശേഷിയിൽ പ്രവർത്തിക്കാത്തതിന്റെ ഒരു പ്രധാന കാരണം വ്യതിചലിക്കുന്ന ജീവനക്കാരോ പ്രതിബദ്ധതയില്ലാത്ത ജീവനക്കാരോ അല്ലെങ്കിൽ ഉയർന്ന പിരിഞ്ഞുപോക്കൽ ഉള്ളതോ ആയ ജീവനക്കാരോ ആണെങ്കിൽ പരിശീലനം പ്രശ്നം പരിഹരിച്ചേക്കില്ല എന്നിരുന്നാലും ജീവനക്കാർ പ്രതിജ്ഞാബദ്ധരാണെങ്കിൽ അവർ അവരുടെ തൊഴിൽ അന്തരീക്ഷത്തിൽ സംതൃപ്തരാണെങ്കിൽ അവർക്ക് ഇപ്പോഴും അവരുടെ കഴിവിന്റെ പരമാവധി ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അപ്പോൾ അവരെ പുതിയ കഴിവുകളിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള പുതിയ വഴികളിൽ വീണ്ടും പരിശീലിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ പരിശീലിപ്പിക്കുകയോ ആവശ്യമായി വന്നേക്കാം കൂടാതെ ആ ആവശ്യം ഉണ്ടെന്ന് കണ്ടെത്തിയാൽ വിശകലനത്തിന്റെ മൂന്നാം തലം ഏറ്റെടുക്കേണ്ടതുണ്ട് അറിവ് കഴിവുകൾ മനോഭാവം എന്നിവയുടെ വിശകലനമാണ് അത് അതിനാൽ ജീവനക്കാർ അവിടെയുണ്ട് അവർ പ്രതിജ്ഞാബദ്ധരാണ് അവർ അവരുടെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആ ഘട്ടത്തിൽ ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സജ്ജമാക്കിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അവർക്ക് എന്താണ് അറിയാവുന്നത് അവർ അറിയേണ്ടതെന്താണ് എന്നിവ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ അവർക്ക് മികച്ച പ്രകടനം നടത്താൻ കഴിയാത്തതിന് വിവിധ കാരണങ്ങളുണ്ടാകാം അവർക്ക് ചെയ്യേണ്ട കഴിവുകൾ ഇല്ലായിരിക്കാം അതിനാൽ ആ കഴിവുകളിൽ ഒരാൾ അവരെ പരിശീലിപ്പിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അവർക്ക് അധിക അറിവ് ഇല്ലായിരിക്കാം അവർക്ക് ഇതിനകം അറിയാവുന്നതെന്തും അവർ അപ്ഡേറ്റ് ചെയ്തേക്കില്ല എങ്ങനെ പ്രയോഗിക്കണം എന്ന് അവർക്കറിയില്ലായിരിക്കാം അതിനാൽ അത് നടപ്പിലാക്കേണ്ടതായി വന്നേക്കാം അല്ലെങ്കിൽ ചില കാരണങ്ങളാൽ അവർക്ക് തോന്നില്ല അവർ ഓർഗനൈസേഷന്റെ ആവശ്യകതകളുമായി പൊരുത്തപ്പെടുന്നില്ലായിരിക്കാം ആ ഘട്ടത്തിൽ ആ മനോഭാവങ്ങളും വിലയിരുത്തേണ്ടതുണ്ട് കൂടാതെ അവരുടെ നിലവിലെ പ്രകടന നിലവാരം എന്താണെന്നും അവരുടെ മികച്ച പ്രകടന നിലവാരം എന്താണെന്നും കണ്ടെത്തേണ്ടതുണ്ട് കൂടാതെ വ്യത്യാസം കണ്ടെത്തിക്കഴിഞ്ഞാൽ ഒരാൾ എവിടെയാണെന്നും ഒരാൾ എവിടെയാണ് പോകേണ്ടത് എന്നും ആ ഘട്ടത്തിൽ ഗുണപരമായും അളവിലും എത്ര ദൂരം സഞ്ചരിക്കണം എന്നും കണ്ടത്തിയാൽ ശരിക്കും പരിശീലനത്തിന്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ പരിശീലനം കൂടാതെ ഒരാൾക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് വീണ്ടും വിലയിരുത്തേണ്ടതുണ്ട് അവർക്ക് പ്രചോദനം നൽകണമെങ്കിൽ ആ സമയത്ത് പരിശീലനം സഹായിക്കില്ല അതേസമയം അവർ ശരിക്കും വിഭവങ്ങളിലേക്കുള്ള പ്രവേശനത്തിന്റെ അഭാവം കാരണം പരിമിതമാണെന്ന് തോന്നുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ അവർക്ക് അവരുടെ ജോലി നന്നായി നിർവഹിക്കാൻ വേണ്ടത്ര അറിവില്ലങ്കിൽ ആ സമയത്ത് പരിശീലനത്തിന്റെ ആവശ്യകത ഉണ്ടായിരിക്കാം കൂടാതെ ആ ഘട്ടത്തിൽ അവർക്ക് പരിശീലനം നൽകണം പിന്നെ ഫീഡ്ബാക്ക് പരിശീലനത്തിന്റെ ആവശ്യകത അവിടെ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ അവർ പരിശീലിക്കുകയും ചെയ്താൽ അവർക്ക് നൽകിയത് അവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ലയോ എന്ന് തുടർന്ന് ഓരോ ഘട്ടത്തിലും പരിശോധിക്കുന്നു തുടർന്ന് ഞങ്ങൾ പഠന തത്വങ്ങളിലേക്ക് വരുന്നു ജീവനക്കാർ എങ്ങനെ പഠിക്കുന്നു നൈപുണ്യ പഠനത്തിന്റെ ചില ഘടകങ്ങൾ ഒന്ന് ലക്ഷ്യ ക്രമീകരണമാണ് അതിനാൽ ആളുകളെ ഓർഗനൈസേഷനുകളിൽ പഠിപ്പിക്കുമ്പോൾ അവരെ പ്രാഥമികമായി പഠിപ്പിക്കുന്നു അവരെ കഴിവുകൾ പഠിപ്പിക്കുന്നു അവർക്ക് അധിക അറിവ് നൽകുന്നു കൂടാതെ അവരുടെ ജോലി നിർവഹിക്കുന്നതിന് കഴിയുന്നത്ര മികച്ച രീതിയിൽ അവരെ പുതിയ കഴിവുകൾ പഠിപ്പിക്കുന്നു ഇതിൽ ലക്ഷ്യ ക്രമീകരണം നൈപുണ്യ പഠനത്തിന്റെ ഒരു വലിയ ഘടകമാണ് അവിടെ അവർ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയപ്പെടുന്നു അതിനാൽ ഒരാൾ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുമ്പോൾ അന്തിമഫലം വ്യക്തമായിക്കഴിഞ്ഞാൽ അന്തിമഫലത്തിലെത്താൻ ആവശ്യമായ ഘട്ടങ്ങളും വ്യക്തമാകും അതിനാൽ ഗോൾ സിദ്ധാന്തം പിന്നീട് പ്രവർത്തിക്കുന്നു കൂടാതെ ലക്ഷ്യ സിദ്ധാന്തം എന്നത് ഒരു വ്യക്തിയുടെ ബോധപൂർവമായ ലക്ഷ്യങ്ങളാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ബോധപൂർവമായ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഉദ്ദേശ്യങ്ങൾ അവന്റെ അല്ലെങ്കിൽ അവളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നുവെന്ന് പറയുന്നു അതിനാൽ ആ സമയത്ത് ലക്ഷ്യങ്ങൾ വ്യക്തിഗത ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഘടനാ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടേണ്ടതുണ്ട് അത് ശരിക്കും ജോലിക്കാരനെ പഠിപ്പിക്കുന്നതെന്തും പഠിക്കാൻ സഹായിക്കും അവരുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായിക്കഴിഞ്ഞാൽ പരിശീലന പരിപാടിയുടെ ലക്ഷ്യങ്ങൾ ഒരു വ്യക്തിയുടെ വ്യക്തിപരവും സംഘടനാപരവുമായ ലക്ഷ്യങ്ങളുമായി യോജിപ്പിച്ച് പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കാവുന്നതാണ് ആ സമയത്ത് വരാൻ പോകുന്നതെന്തിനെയും കുറിച്ച് ജീവനക്കാരന് ജാഗ്രത പുലർത്താം വെല്ലുവിളി നിറഞ്ഞതും എന്നാൽ കൈവരിക്കാവുന്നതുമായ ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക അതിനാൽ വ്യക്തിഗത ജീവനക്കാർ നിർവചിക്കുന്ന ലക്ഷ്യങ്ങളും ഒരാൾക്ക് ലക്ഷ്യങ്ങൾ സജ്ജീകരിക്കാൻ ചെറിയ ലക്ഷ്യങ്ങൾ സജ്ജീകരിക്കാൻ ഈ വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ചുവടുകൾ സജ്ജീകരിക്കാൻ ഉപയോഗിക്കാം പരിശീലന സമയത്ത് ഹ്രസ്വകാല ലക്ഷ്യങ്ങൾ കൈവരിക്കുക അതിനാൽ ഹ്രസ്വകാല ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ ജീവനക്കാരെ സഹായിക്കുക അതുവഴി വ്യക്തിക്ക് കൂടുതൽ ആത്മവിശ്വാസം വികസിപ്പിക്കാൻ കഴിയും ഒരു വൈദഗ്ദ്ധ്യം പഠിക്കുന്നതിന്റെ രണ്ടാമത്തെ വശം പെരുമാറ്റ മോഡലിംഗ് ആണ് അതായത് പകർത്തൽ മോഡലിംഗ് എന്നത് കൃത്യമായി പകർത്തുകയല്ല മറിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മുതിർന്ന വ്യക്തി ചെയ്യുന്നതുപോലെ കൂടാതെ ഒരു പ്രക്രിയ എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അത് പ്രതീക്ഷിക്കുന്ന രീതിയിൽ എങ്ങനെ നടപ്പിലാക്കണം എന്ന് പഠിക്കുന്നതാണ് അതിനാൽ പെരുമാറ്റ മോഡലിംഗിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നത് ജീവനക്കാരനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പെരുമാറ്റത്തിന്റെ ശാരീരിക സമാനതയെക്കുറിച്ചാണ് അതിനാൽ ശാരീരികമായി എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ജീവനക്കാരന് കാണിക്കേണ്ട ഒരു ഘടകമാണിത് അതുകൊണ്ട് പെരുമാറ്റങ്ങളുടെ വ്യക്തമായ ചിത്രീകരണം ഉണ്ടായിരിക്കണം ഒരു വ്യക്തി പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പഴയ പെരുമാറ്റങ്ങളുമായി പുതിയ പെരുമാറ്റത്തിൽ ചില സാമ്യതകൾ ഉണ്ടായിരിക്കണം കൂടാതെ പുതിയ സ്വഭാവം വളരെ വ്യക്തമായി പ്രദർശിപ്പിച്ചിരിക്കണം തുടർന്ന് മാതൃകയാക്കേണ്ട പെരുമാറ്റങ്ങൾ മുൻഗണനാ ക്രമത്തിൽ റാങ്ക് ചെയ്യണം കൂടാതെ ഈ മുൻഗണന ജീവനക്കാരനെ അറിയിക്കണം കൂടാതെ പെരുമാറ്റം ചിത്രീകരിക്കുന്നതിനുള്ള നിരവധി മോഡലുകൾ ഉണ്ട് അതിനാൽ എന്താണ് സംഭവിക്കുന്നതെന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ജീവനക്കാരനെ കാണിക്കുമ്പോൾ ഈ സ്വഭാവം പ്രകടിപ്പിക്കുന്ന വ്യക്തിയുമായി ജീവനക്കാരന് ആശ്വാസകരം അല്ലെങ്കിൽ അപ്പോൾ ജോലിക്കാരന് ഒരുപക്ഷെ പ്രതികരിക്കാം അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിക്കും പിന്തുടരാതിരിക്കാം ആ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ ഒരു വ്യക്തിയുടെ പെരുമാറ്റം കാണിക്കുന്നത് പെരുമാറ്റത്തെ മാതൃകയാക്കുന്ന ഈ വ്യക്തിയുടെ മറ്റ് സ്വഭാവസവിശേഷതകളെക്കുറിച്ചും യഥാർത്ഥ മാതൃകാപരമായ പെരുമാറ്റത്തെക്കുറിച്ചും ട്രെയിനിയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഒരു ബന്ധത്തിലേക്ക് നയിച്ചേക്കാം അതിനാൽ ആ ബന്ധം തകർക്കാൻ ഈ പുതിയ സ്വഭാവം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ ഈ പുതിയ പെരുമാറ്റത്തിന്റെ നിരവധി സന്ദർഭങ്ങൾ ജീവനക്കാരനെ കാണിക്കുകയോ ട്രെയിനിയെ കാണിക്കുകയോ ചെയ്താൽ അത് സഹായിക്കും അതിനാൽ പ്രതീക്ഷിക്കുന്ന സ്വഭാവങ്ങൾ ചിത്രീകരിക്കുന്ന നിരവധി മോഡലുകൾ എല്ലായ്പ്പോഴും സഹായിക്കുന്നു നൈപുണ്യ പഠനത്തിന്റെ മറ്റൊരു വശമാണ് മെറ്റീരിയലിന്റെ അർത്ഥപൂർണത പരിശീലനാർത്ഥിക്ക് ഞങ്ങൾ എന്തെങ്കിലും മെറ്റീരിയൽ നൽകുമ്പോഴെല്ലാം ട്രെയിനിക്ക് അർത്ഥം കാണാൻ കഴിയുമെങ്കിൽ ട്രെയിനിക്ക് നൽകിയതിന്റെ മൂല്യം കാണാൻ കഴിയുമെങ്കിൽ അത് എല്ലായ്പ്പോഴും സഹായിക്കുന്നു അതിനാൽ അത് നൽകുന്നതിന് ട്രെയിനിയുമായി പങ്കിടുന്ന മെറ്റീരിയലിനെക്കുറിച്ച് ഒരു അവലോകനം ട്രെയിനിക്ക് നൽകണം കൂടാതെ പരിശീലനത്തിന് പരിചിതമായ നിബന്ധനകളും ആശയങ്ങളും സംബന്ധിച്ച് പുതിയ ട്രെയിനിയുമായി ഉദാഹരണങ്ങൾ പങ്കിടണം അതിനാൽ ഈ പ്രക്രിയയെ സ്കാഫോൾഡിംഗ് എന്ന് വിളിക്കുന്നു എന്താണ് ഒരു സ്കാഫോൾഡിംഗ് അർത്ഥമാക്കുന്നത് പൊതുവായ ഭാഷയിൽ സ്കാഫോൾഡിംഗ് എന്നതിനെ നിർമ്മാണ പദങ്ങളിൽ നമ്മൾ വിളിക്കുന്നത് ഷട്ടറിംഗ് എന്നാണ് അതിനാൽ സ്കാർഫോൾഡിംഗ് എന്നത് ഒരു പുതിയ ഘടനയെ സ്ഥിരപ്പെടുത്തുന്നതിന് ഒരാൾ നൽകുന്ന പിന്തുണയാണ് കൂടാതെ ഈ പിന്തുണ നൽകിയിരിക്കുന്നത് അത് നിലവിലുള്ള ഒരു ഘടനയിൽ അധിഷ്ഠിതമാണെന്ന ധാരണയോടെയാണ് ഈ അധിക പിന്തുണ വഴി നിലവിലുള്ള ഘടനയുടെ കരുത്ത് വിപുലീകരിക്കപ്പെടുന്നത് പുതിയ ഘടനയെ പിടിച്ചുനിർത്തുന്നതിനുള്ള ഒരു സ്കാർഫോൾഡിംഗ് എന്ന് നമ്മൾ വിളിക്കുന്നതിലൂടെയാണ് അതിനാൽ നിലവിലെ ഘടനയ്ക്കും പുതിയ ഘടനയ്ക്കും ഇടയിലുള്ള ഒരു പാലമായി സ്കാഫോൾഡിംഗ് പ്രവർത്തിക്കുന്നു അതിനാൽ നിലവിലുള്ള ഘടനയുടെ ശക്തി പുതിയ ഘടനയെ പിന്തുണയ്ക്കുന്നതിനായി ഒരു സ്കാർഫോൾഡിംഗ് വഴി വിപുലീകരിക്കുന്നു കൂടാതെ ട്രെയിനികൾക്ക് പുതിയ മെറ്റീരിയലുകൾ നൽകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അതാണ് നിലവിലുള്ള അവരുടെ അറിവിന്റെ മൂല്യം അവർക്ക് കാണിച്ചുകൊടുക്കുന്നു തുടർന്ന് അവർ ഇതിനകം പരിചിതമായ നിലവിലുള്ള ശക്തമായ അർത്ഥവത്തായ മെറ്റീരിയലിൽ അല്ലെങ്കിൽ അറിവിൽ പുതിയ പരിശീലനത്തിനായി അവർക്ക് നൽകുന്ന പുതിയ അറിവിന്റെ അടിത്തറ നിർമ്മിക്കുക ലളിതമായ കഴിവുകൾ പഠിപ്പിക്കുക തുടർന്ന് അവയെ കൂടുതൽ സങ്കീർണ്ണമായ കഴിവുകളിലേക്ക് സംയോജിപ്പിക്കുക അതിനാൽ മെറ്റീരിയലിന്റെ അർത്ഥപൂർണത വർദ്ധിപ്പിക്കുന്നതിനുള്ള മറ്റൊരു മാർഗമാണ് ഇത് നിങ്ങൾ അവരെ വളരെ വേഗത്തിൽ അവർക്ക് മാസ്റ്റർ ചെയ്യാൻ കഴിയുന്ന ലളിതമായ കഴിവുകൾ പഠിപ്പിക്കുന്നു ഒരിക്കൽ ഈ ലളിതമായ കഴിവുകളിൽ അവർ സുഖപ്രദമായാൽ സങ്കീർണ്ണമായ കഴിവുകളിലേക്ക് കടക്കുന്നു അത് അവർക്ക് പരിചിതമായ നിലവിലുള്ള കഴിവുകളുടെ കൂടുതൽ വിപുലമായ രൂപങ്ങൾ അവരെ പഠിപ്പിക്കുന്നതാണ് തുടർന്ന് അവർക്ക് പരിചിതമായ നിലവിലുള്ള കഴിവുകളുമായി ബന്ധപ്പെടാൻ കഴിയും കൂടാതെ അവർക്ക് അതിലേക്കു അടുക്കാനും കഴിയും നൈപുണ്യ പഠനത്തിന്റെ മറ്റൊരു വശമാണ് പരിശീലനം അതിലൂടെ എന്താണ് ചെയ്യേണ്ടതെന്ന് ട്രെയിനികളെ ഞങ്ങൾ കാണിക്കുന്നു എന്തുകൊണ്ടാണ് ഇത് പ്രധാനമെന്ന് അവരെ കാണിക്കുന്നു തുടർന്ന് അത് സജീവമായി പരിശീലിക്കാൻ ഞങ്ങൾ അവർക്ക് അവസരം നൽകുന്നു അതിനാൽ നിയന്ത്രിത പരിതസ്ഥിതികളിൽ അവരുടെ നൈപുണ്യത്തിന്റെ മേൽ അല്ലെങ്കിൽ അവരുടെ വൈദഗ്ധ്യത്തിന്റെ ഉപയോഗം എന്നിവയിൽ പ്രാവീണ്യം നേടുന്നതിന് അവർക്ക് അവസരം നൽകുന്നു ഇപ്പോൾ പരിശീലനത്തിന്റെ ചില വശങ്ങൾ സജീവമായ പരിശീലനമാണ് അമിതമായി പഠിക്കുന്നത് ദോഷകരമാകും അമിതമായി പഠിക്കുക എന്നതിനർത്ഥം നിങ്ങൾ അവരെ നിരന്തരം പുതിയ എന്തെങ്കിലും പഠിപ്പിക്കുന്നു കൂടാതെ ഒരു ഘട്ടത്തിന് ശേഷം ഈ പുതിയ പഠനം കെട്ടിപ്പടുക്കപ്പെട്ട അടിത്തറയുമായുള്ള ബന്ധം അവർക്ക് എങ്ങനെയെങ്കിലും നഷ്ടപ്പെടും അതിനാൽ അതാണ് അമിതമായ പഠനം പരിശീലനത്തിന്റെ കൈമാറ്റം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് വളരെ ചുരുക്കി പറഞ്ഞു പരിശീലനത്തിന്റെ കൈമാറ്റം പരിശീലനത്തിൽ പഠിച്ച കഴിവുകൾ എത്രത്തോളം ജോലികളിൽ പ്രയോഗിക്കാൻ കഴിയും എന്നതാണ് അതിനാൽ പരിശീലനം കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില പോസിറ്റീവ് വശങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവ് വഴികൾ അത് പ്രകടനം മെച്ചപ്പെടുത്തുന്നു എന്നതാണ് നിങ്ങൾ പുതിയ എന്തെങ്കിലും പഠിക്കുന്നു അത് കാര്യങ്ങൾ നന്നായി ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നു പ്രകടനത്തെക്കുറിച്ചുള്ള പരിശീലനത്തിന്റെ നെഗറ്റീവ് സ്വാധീനങ്ങളിലൊന്ന് ഇത് പ്രകടനത്തെ തടസ്സപ്പെടുത്തുന്നു എന്നതാണ് എന്തെങ്കിലും ചെയ്യാനുള്ള പുതിയ വഴികൾ നിങ്ങൾ പഠിക്കുന്നു പിന്നെ നിങ്ങളുടെ ജോലിയിൽ എത്തുമ്പോൾ വിവിധ കാരണങ്ങളാൽ നിങ്ങൾ പഠിച്ച പുതിയതെന്തും നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല സംഘടനയുടെ നയങ്ങൾ ചിലപ്പോൾ അനുവദിച്ചേക്കില്ല ദിനചര്യയിൽ നിന്നുള്ള വളരെയധികം വ്യത്യാസം പ്രക്രിയയുടെ ചില തകരാറുകൾ അല്ലെങ്കിൽ പ്രക്രിയയിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നതിൽ കലാശിച്ചേക്കാം അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച പുതിയ കാര്യം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് ആളുകൾക്ക് സുഖകരമാകില്ല അതിനാൽ വിവിധ രീതിയിൽ ഇത് പ്രകടനത്തെ ബാധിക്കാം കൂടാതെ നിഷ്പക്ഷത എന്തെന്നാൽ അത് പ്രകടനത്തെ ബാധിക്കില്ല നിങ്ങൾ പുതിയ എന്തെങ്കിലും പഠിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് അത് ജോലിയിൽ ഉപയോഗിക്കാൻ കഴിയില്ല അത് നിങ്ങളെ വേദനിപ്പിക്കുന്നില്ല പക്ഷേ അത് നിങ്ങളെ സഹായിക്കുന്നുമില്ല അതിനാൽ ഇവയെല്ലാം പരിശീലന കൈമാറ്റത്തിന്റെ വ്യത്യസ്ത വശങ്ങളാണ് പ്രവർത്തന പഠനം എന്നത് പങ്കാളികൾ അനുഭവത്തിലൂടെയും ജോലിയിലെ പ്രയോഗത്തിലൂടെയും പഠിച്ചതാണ് ടീം പരിശീലനം നിങ്ങൾക്ക് വ്യക്തമായ ദിശാബോധം നൽകുന്നു ടീം പരിശീലനം എന്നത് വിവിധ ടീമുകളെ മൊത്തത്തിൽ പരിശീലിപ്പിക്കുക എന്നതാണ് അതിനാൽ വിവിധ ആനുകൂല്യങ്ങൾ ഉണ്ട് ഇത് നിങ്ങൾക്ക് വ്യക്തമായ ദിശാബോധം നൽകുന്നു കാരണം മുഴുവൻ ടീമും ഒരേ ദിശയിലേക്ക് നീങ്ങുന്നു കഴിവുള്ള അംഗങ്ങൾ തീർച്ചയായും അവർക്ക് അറിയാവുന്നതും അവർക്ക് ചെയ്യാൻ കഴിയുന്നതും ഗണ്യമായി മെച്ചപ്പെടുന്നു നിങ്ങൾ ഒരു ടീമായി ഒരുമിച്ച് പഠിക്കുമ്പോൾ അത് വ്യക്തവും ആകർഷകവുമായ ഉത്തരവാദിത്തങ്ങളിലേക്ക് നയിക്കുന്നു ടീം പരിശീലനത്തിന്റെ ഫലമായി യുക്തിസഹവും കാര്യക്ഷമവുമായ പ്രവർത്തന നടപടിക്രമങ്ങൾ വീണ്ടും സ്ഥാപിക്കപ്പെടുന്നു ഒരു ടീമിന്റെ ഭാഗമായി നിങ്ങൾ ഒരുമിച്ച് കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഘടനാപരമായ പരസ്പര ബന്ധങ്ങൾ കെട്ടിപ്പടുക്കും മുൻകാലങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതോ അല്ലാത്തതോ ആയവർക്ക് നിങ്ങളും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ ഇത് ഒരു അവസരം നൽകുന്നു കൂടാതെ അത് മിക്ക കേസുകളിലും വളരെ ക്രിയാത്മകവും വളരെ ദൃഢവും വ്യക്തിപരവുമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലേക്ക് നയിക്കുന്നു ഇത് സജീവമായ ശക്തിപ്പെടുത്തൽ സംവിധാനങ്ങളിലേക്കും നയിക്കുന്നു ധാരാളം ആളുകൾ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ പരിശീലനത്തിൽ ഏർപ്പെടുമ്പോൾ ബലപ്പെടുത്തൽ സംവിധാനങ്ങൾ ഒഴിവാക്കാനുള്ള സാധ്യത സംഘടനകൾക്ക് കുറവാണ് അതിനാൽ അവർ ശക്തിപ്പെടുത്തൽ സംവിധാനങ്ങൾ സ്ഥാപിച്ചു കാരണം അതിൽ നിരവധി ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് കൂടാതെ മറ്റ് ടീമുകളുമായും അംഗങ്ങളല്ലാത്ത പ്രധാന സംഘടനാ കളിക്കാരുമായും സൃഷ്ടിപരമായ ബന്ധങ്ങളിലേക്ക് അവർ നിങ്ങളെ ക്രിയാത്മകമായി ശക്തിപ്പെടുത്തുന്നു ചില പരിശീലന രീതികൾ വിവിധ വിഭാഗങ്ങൾ ഒന്ന് വിവര അവതരണ വിദ്യകളാണ് സിമുലേഷൻ രീതികളാണ് മറ്റൊന്ന് കൂടാതെ മൂന്നാമത്തെ തരത്തിലുള്ള പരിശീലന രീതികൾ ജോലിസ്ഥലത്തെ പരിശീലന രീതികളാണ് ഈ പരിശീലന രീതികളുടെ ലക്ഷ്യങ്ങളിൽ ആദ്യത്തേത് പ്രോത്സാഹിപ്പിക്കുക സ്വയം ഉൾക്കാഴ്ച പരിസ്ഥിതി അവബോധം എന്നിവയാണ് അതിനാൽ പരിശീലനത്തിലെ സ്വയം ഉൾക്കാഴ്ചയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പരിശീലനത്തിലൂടെ കടന്നുപോകുമ്പോൾ എത്രമാത്രം പഠിക്കാനുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു തീരുമാനങ്ങൾ എടുക്കുന്നതിനും ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ക്രിയാത്മകമായി പരിഹരിക്കുന്നതിനുമുള്ള മാനേജർമാരുടെയും താഴ്ന്ന നിലയിലുള്ള ജീവനക്കാരുടെയും കഴിവ് ഇത് മെച്ചപ്പെടുത്തുന്നു അതിനാൽ ഒരാൾ പരിശീലനത്തിലൂടെ കടന്നുപോകുമ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ഘട്ടമുണ്ട് കൂടാതെ ഒരാൾക്ക് എത്രമാത്രം അറിയില്ല എന്നത് മനസ്സിലാക്കുന്നു കൂടാതെ അതാകട്ടെ പരിശീലനത്തിന് വിധേയരായ ആളുകളുടെ കഴിവ് മെച്ചപ്പെടുത്തുന്നു പരിശീലനത്തിന്റെ ഒരു ഉദ്ദേശം അതാണ് അതായതു നിലവിൽ മറ്റൊരു സ്ഥാനത്തേക്ക് മാറുന്നതിനെ മെച്ചപ്പെടുത്തുക മികച്ച പ്രകടനം നടത്താനുള്ള ആഗ്രഹം വർദ്ധിപ്പിക്കുക ആരെങ്കിലും നിങ്ങളെ എന്തെങ്കിലും പഠിപ്പിക്കുമ്പോൾ പരിശീലനം അവസാനിച്ചതിന് ശേഷം നിങ്ങൾ വ്യത്യസ്തമായി കാര്യങ്ങൾ ചെയ്യുമെന്നാണ് പ്രതീക്ഷ അതിനാൽ പരിശീലനം നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമാണെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ സ്ഥാപനത്തിനും നിങ്ങളുടെ സംഭാവന എങ്ങനെ മെച്ചപ്പെടുത്തും എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് എളുപ്പമാകും എങ്ങനെയാണ് നിങ്ങൾ പരിശീലന രീതികൾ തിരഞ്ഞെടുക്കുന്നത് പരിശീലന ലക്ഷ്യങ്ങൾ നിങ്ങൾ നിർവചിക്കുന്നു പ്രകടനം മെച്ചപ്പെടുത്താൻ നിങ്ങൾ ട്രെയിനികളെ പ്രചോദിപ്പിക്കുന്നു പരിശീലന ലക്ഷ്യങ്ങൾ നിർവചിക്കുക തുടർന്ന് അവരുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ അവരെ പ്രോത്സാഹിപ്പിക്കുക ആവശ്യമുള്ള കഴിവുകൾ വ്യക്തമായി ചിത്രീകരിക്കുക എന്താണ് ചെയ്യേണ്ടതെന്ന് അവരെ കാണിക്കുക പരിശീലനത്തിൽ സജീവമായി പങ്കെടുക്കാൻ അനുവദിക്കുക അതിനാൽ പരിശീലന പരിപാടിയിൽ പരിശീലന പരിപാടി അവസാനിച്ചതിന് ശേഷം അവർ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ രീതിയിൽ പങ്കെടുക്കാൻ ട്രെയിനിക്ക് നിങ്ങൾ അവസരം നൽകുന്നു ട്രെയിനിയുടെ പ്രകടനത്തെക്കുറിച്ച് സമയബന്ധിതമായ ഫീഡ്ബാക്ക് നൽകുക പരിശീലനാർത്ഥികൾക്ക് ഫീഡ്ബാക്ക് നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ് പരിശീലനം നേടുന്നയാൾ പഠിക്കുമ്പോൾ ശക്തിപ്പെടുത്തുന്നതിന് ചില മാർഗങ്ങൾ നൽകുക അതിനാൽ ട്രെയിനി പരിശീലിക്കുന്നതുപോലെ ട്രെയിനി പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിനാൽ പരിശീലനത്തിന് ചില വഴികൾ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനുള്ള ചില രീതികൾ നൽകുന്നത് എല്ലായ്പ്പോഴും നല്ല ആശയമാണ് ട്രെയിനിയുടെ പ്രകടനത്തെക്കുറിച്ച് ട്രെയിനിക്ക് ചില ഫീഡ്ബാക്ക് നൽകേണ്ടതുണ്ട് അതായത് ലളിതം മുതൽ സങ്കീർണ്ണമായ ജോലികൾ വരെ ഘടനാപരമായിരിക്കുക പുതിയ എന്തെങ്കിലും പഠിക്കുന്നതിന് ഒരാൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഉപയോഗിച്ച് ഒരാൾക്ക് നിയന്ത്രണമോ വൈദഗ്ധ്യമോ നേടാൻ കഴിയുന്ന ഒന്ന് ഉപയോഗിച്ച് ആരംഭിക്കേണ്ടത് വളരെ പ്രധാനമാണ് തുടർന്ന് കൂടുതൽ ബുദ്ധിമുട്ടുള്ള ജോലികളിലേക്ക് നീങ്ങുക പ്രത്യേക പ്രശ്നങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയുക അതിനാൽ ലളിതമായ ദൈനംദിന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരാൾക്ക് താൻ പഠിച്ചതെന്തും പരിഷ്കരിക്കാനും പ്രയോഗിക്കാനും കഴിയണം പരിശീലനത്തിൽ നിന്ന് ജോലിയിലേക്കുള്ള പോസിറ്റീവ് കൈമാറ്റം പ്രോത്സാഹിപ്പിക്കുക അതിനാൽ ഒരാൾക്ക് താൻ പഠിച്ചത് ക്രിയാത്മകമായി പ്രയോഗിക്കാൻ കഴിയണം ഒപ്പം കൈയിലുള്ള ജോലി കൂടുതൽ കാര്യക്ഷമമായി ചെയ്യാൻ കഴിയണം പരിപാടികൾ നടപ്പിലാക്കുന്നു ആദ്യത്തേത് ജോലിസ്ഥലത്തുള്ള പരിശീലനം ആണ് OJT ഒരു വ്യക്തി ഒരു ജോലി പഠിക്കുക അത് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടാണ് അതിനാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ജോലിയിൽ ഏർപ്പെടുകയും പ്രകടനം നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒന്നാണത് ജോലിസ്ഥലത്തെ പരിശീലനത്തിന്റെ തരങ്ങൾ ഒന്ന് കോച്ചിംഗ് അല്ലെങ്കിൽ അണ്ടർസ്റ്റഡി രീതി അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് എന്ന് ഞങ്ങൾ അതിനെ വിളിക്കുന്നു ജോലിയിൽ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഉപദേഷ്ടാവിന്റെ മാർഗനിർദേശത്തിന് കീഴിലാണ് നിങ്ങളെ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക പക്ഷേ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിരന്തരം നിരീക്ഷിക്കുന്ന ഒരാളുണ്ട് കൂടാതെ ഈ വ്യക്തി സാവധാനം ശരിയായ സമയമാകുമ്പോൾ ദിവസത്തിൽ ഒരിക്കൽ ആഴ്ചയിൽ ഒരിക്കൽ മാസത്തിലൊരിക്കൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് നൽകുന്നു തൊഴിൽ പരിശീലനത്തിന്റെ മറ്റൊരു ഭാഗം തൊഴിൽ റൊട്ടേഷൻ ആണ് ജോബ് റോടേഷൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പരിതസ്ഥിതിയിൽ പ്രകടനം നടത്താൻ യഥാർത്ഥത്തിൽ ഒരു പുതിയ പരിതസ്ഥിതിയിൽ നിങ്ങളെ എത്തിക്കുന്നു പ്രത്യേക അസൈൻമെന്റുകളോ പ്രതിനിധി പ്രോജക്ടുകളോ ഒരു ജീവനക്കാരന് നൽകാം അവിടെ ജീവനക്കാരൻ സമാനമായ എന്തിലെങ്കിലും ഏർപ്പെടുന്നതിലൂടെ പുതിയ എന്തെങ്കിലും പഠിക്കുന്നു യഥാർത്ഥ ജോലിയല്ല പക്ഷേ സമാനമായ ജോലി അത് മൂല്യം കുറഞ്ഞതാണ് പക്ഷേ അത് നമുക്കുള്ള ചുമതലയുടെ കൃത്യമായ പ്രതിനിധിയാണ് ജോലിസ്ഥലത്തെ പരിശീലനത്തിന് ഒരാൾ ആദ്യം ചെയ്യേണ്ടത് പഠിതാവിനെ തയ്യാറാക്കുക എന്നതാണ് അതിനാൽ ഒരാൾ പഠിതാവിനെ ആശ്വസിപ്പിക്കുകയും എന്തിനാണ് അവളെ അല്ലെങ്കിൽ അവനെ പഠിപ്പിക്കുന്നതെന്ന് വിശദീകരിക്കുകയും വേണം തുടർന്ന് നിങ്ങൾ താൽപ്പര്യം സൃഷ്ടിക്കുകയും പഠിതാവിന് ജോലിയെക്കുറിച്ച് ഇതിനകം എന്താണ് അറിയാവുന്നതെന്നും പഠിതാവിന് ജോലിയിൽ നിന്ന് എന്താണ് പഠിക്കാനാവുകയെന്നും കണ്ടെത്തുകയും വേണം അടുത്ത ഭാഗം മുഴുവൻ ജോലിയും വിശദീകരിക്കുക കൂടാതെ തൊഴിലാളി ഇതിനകം ചെയ്ത ചില ജോലിയുമായി ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ തൊഴിലാളിക്ക് ഇതിനകം അറിയാവുന്ന ചില ജോലികളും വിശദീകരിക്കുക ഇതിനെ സ്കാഫോൾഡിംഗ് എന്ന് വിളിക്കുന്നു നിങ്ങൾ പുതിയ ജോലിയെക്കുറിച്ച് വിശദീകരിച്ച് തൊഴിലാളിയെ ഒരാൾക്ക് എങ്ങനെ മുൻ ജോലിയിൽ നിന്ന് പഠിക്കാം പുതിയ ജോലിയിലേക്ക് അവ എങ്ങനെ പ്രയോഗിക്കാം എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുക തുടർന്ന് നിങ്ങൾ പഠിതാവിനെ സാധാരണ ജോലി ചെയ്യുന്ന സ്ഥാനത്തോട് കഴിയുന്നത്ര അടുത്ത് നിർത്തുക അങ്ങനെ അവർ പുതിയ തൊഴിൽ അന്തരീക്ഷം കാണട്ടെ നിരീക്ഷിക്കട്ടെ പുതിയ തൊഴിൽ അന്തരീക്ഷത്തോട് പ്രതികരിക്കട്ടെ ഉപകരണങ്ങൾ മെറ്റീരിയലുകൾ ടൂളുകൾ വ്യാപാര നിബന്ധനകൾ എന്നിവ തൊഴിലാളിയെ പരിചയപ്പെടുത്തുക തുടർന്ന് നിങ്ങൾ പ്രവർത്തനം അവതരിപ്പിക്കുക ഈ ഘട്ടത്തിൽ നിങ്ങൾ ആവശ്യകതകൾ വിശദീകരിക്കുകയോ അളക്കുകയോ ചെയ്യുന്നു എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ തൊഴിലാളിയോട് വിശദീകരിക്കുന്നു തുടർന്ന് നിങ്ങൾ സാധാരണ ജോലിസ്ഥലത്ത് സാധാരണ വേഗതയിൽ ജോലിയിലൂടെ കടന്നുപോകുന്നു ഓരോ ഘട്ടവും വിശദീകരിച്ചുകൊണ്ട് നിങ്ങൾ ജോലിയിലൂടെ മന്ദഗതിയിൽ നിരവധി തവണ കടന്നുപോകുന്നു ബുദ്ധിമുട്ടുള്ളതായി തോന്നിയേക്കാവുന്ന ഏത് പ്രക്രിയയും വിശദീകരിക്കുക കൂടാതെ ഇത് എങ്ങനെ ലളിതമാക്കാം എന്ന് വിശദീകരിക്കുക കുറഞ്ഞ വേഗതയിലും പ്രക്രിയ ആവർത്തിക്കുക പ്രധാന പോയിന്റുകൾ വിശദീകരിക്കുക നിങ്ങൾ ജോലിയിലൂടെ കടന്നുപോകുമ്പോൾ മന്ദഗതിയിലുള്ള ഘട്ടങ്ങൾ പഠിതാവിനെ വിശദീകരിക്കാൻ ആവശ്യപ്പെടുക അതിനാൽ പഠിതാവ് എത്രത്തോളം പഠിക്കുന്നു പഠിതാവ് എത്രമാത്രം ഉൾക്കൊള്ളുന്നു തുടങ്ങിയ കാര്യങ്ങൾക്ക് അവർ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് നൽകട്ടെ OJT പ്രക്രിയയിൽ അടുത്ത ഭാഗം പ്രക്രിയ പരീക്ഷിക്കുക എന്നതാണ് പഠിതാവിന് ജോലിയിലൂടെ നിരവധി തവണ കടന്നു പോകാൻ അവസരം നൽകുക ഓരോ ഘട്ടവും പഠിതാവിന് സാവധാനം വിശദീകരിക്കുക തെറ്റുകൾ തിരുത്തുക കൂടാതെ ആവശ്യമെങ്കിൽ സങ്കീർണ്ണമായ ചില ഘട്ടങ്ങൾ ചെയ്യുക ആദ്യത്തെ കുറച്ച് തവണ എന്താണ് വേണ്ടതെന്ന് പഠിതാവിനെ കാണിക്കുക ആ സമയത്ത് പഠിതാവ് തെറ്റുകൾ വരുത്തിയാൽ പഠിതാവിനെ സഹായിക്കുക ഈ തെറ്റുകൾ തിരുത്തുക കൂടാതെ ആവശ്യമെങ്കിൽ പഠിതാവിനെ സങ്കീർണ്ണമായ ചില ഘട്ടങ്ങൾ മനസിലാക്കാൻ സഹായിക്കുക അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് തവണ ആവർത്തിക്കുക തുടർന്ന് ജോലി സാധാരണ വേഗതയിൽ പ്രവർത്തിപ്പിക്കുക അതിനാൽ പഠിതാവ് ജോലിയുടെ ആവശ്യങ്ങൾ സാവധാനത്തിൽ അല്ലെങ്കിൽ സാധാരണ വേഗതയിൽ അവന്റെ അല്ലെങ്കിൽ സ്വന്തമായ വേഗതയിൽ ആഗിരണം ചെയ്യട്ടെ പഠിതാവിനെ ക്രമേണ വൈദഗ്ധ്യവും വേഗതയും വർദ്ധിപ്പിച്ച് ജോലി ചെയ്യാൻ അനുവദിക്കുക അതിനാൽ പഠിതാവിന് മന്ദഗതിയിൽ പുതിയ എന്തെങ്കിലും പഠിക്കാനുള്ള അവസരം നൽകുക കൂടാതെ പഠിതാവിന് സ്വന്തമായി കാര്യങ്ങൾ പഠിക്കാൻ മതിയായ അവസരം നൽകുക ക്രമേണ നൈപുണ്യവും വേഗതയും വർദ്ധിപ്പിക്കുക പഠിതാവ് ജോലി ചെയ്യാനുള്ള കഴിവ് പ്രകടിപ്പിക്കുമ്പോൾ ജോലി ആരംഭിക്കട്ടെ പക്ഷേ പഠിതാവ് ജോലി കഴിയുന്നത്ര നന്നായി ചെയ്യാൻ പഠിക്കാനുള്ളതെല്ലാം പഠിക്കുന്നതുവരെ അവനെയോ അവളെയോ ഉപേക്ഷിക്കരുത് തുടർന്ന് ഫോളോ അപ്പ് ആണ് പഠിതാവ് ആരെയാണ് സഹായത്തിനായി സമീപിക്കേണ്ടതെന്ന് നിശ്ചയിക്കുക അതിനാൽ പഠിതാവ് പുതിയ എന്തെങ്കിലും പഠിച്ചു കൂടാതെ പഠിതാവിന് അടുത്തതായി എന്തുചെയ്യാൻ കഴിയുമെന്ന് പഠിതാവിനെ മനസ്സിലാക്കാൻ അനുവദിക്കുന്നതിനുള്ള സമയമാണിത് അതിനാൽ പഠിതാവിനെ ഉപേക്ഷിക്കരുത് പഠിതാവ് ജോലി ചെയ്യട്ടെ അടുത്തതായി എന്താണ് ചെയ്യേണ്ടതെന്ന് പഠിതാവ് മനസ്സിലാക്കട്ടെ തുടർന്ന് ആരെയെങ്കിലും ഏൽപ്പിക്കുക അല്ലെങ്കിൽ പഠിതാവിന് എങ്ങനെ ജോലി നന്നായി ചെയ്യാൻ കഴിയുമെന്ന് ഒരാളെ മനസ്സിലാക്കാൻ അനുവദിക്കുക അല്ലെങ്കിൽ പഠിതാവിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പഠിതാവിന് സമീപിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ നൽകുക അതിനാൽ ചില ഉപദേഷ്ടാക്കളെ നിയമിക്കണം കാലാകാലങ്ങളിൽ മേൽനോട്ട പരിശോധന ജോലികൾ ക്രമേണ കുറയ്ക്കുക ആ സമയത്ത് പ്രക്രിയയുടെ മേലുള്ള നിങ്ങളുടെ നിയന്ത്രണം സാവധാനം ഉപേക്ഷിക്കുക ഒപ്പം കാലാകാലങ്ങളിൽ പഠിതാവിന്റെ ജോലി പരിശോധിക്കുക ജോലി സാവധാനം പരിശോധിക്കുക കൂടാതെ എന്താണ് സംഭവിക്കുന്നതെന്ന് നിരീക്ഷിക്കുക പക്ഷേ വളരെയധികം ഇടപെടാൻ ശ്രമിക്കരുത് തെറ്റായ വർക്ക് പാറ്റേണുകൾ ഒരു ശീലമാകുന്നതിന് മുമ്പ് പരിശോധിക്കുക അതിനാൽ തെറ്റായ പ്രവർത്തന രീതികൾ തിരിച്ചറിയുക പഠിതാവ് എവിടെയാണ് തെറ്റുകൾ വരുത്തുന്നതെന്ന് തിരിച്ചറിയുക പഠിതാവ് അവ ശീലമാക്കുന്നതിന് മുമ്പ് ഈ തെറ്റായ പ്രവർത്തന രീതികളെക്കുറിച്ച് അവരെ നിയന്ത്രിക്കുകയും പഠിതാവിനെ അറിയിക്കുകയും ചെയ്യുക നിങ്ങൾ നിർദ്ദേശിക്കുന്ന രീതി എന്തുകൊണ്ട് മികച്ചതാണെന്ന് കാണിക്കുക തുടർന്ന് പഠിതാവിന്റെ നല്ല പ്രവൃത്തിയെ പൂർത്തീകരിക്കുക അപ്രന്റീസ്ഷിപ്പ് പരിശീലനം സാധാരണയായി ഔപചാരികമായ പഠന നടപടിക്രമങ്ങളുടെ സംയോജനത്തിലൂടെ ആളുകൾ വിദഗ്ധ തൊഴിലാളികളാകുന്ന പ്രക്രിയയാണ് അതിനാൽ ഔപചാരികമായ പഠനവും ദീർഘകാല തൊഴിൽ പരിശീലനവും അപ്രന്റീസ്ഷിപ്പ് അർത്ഥമാക്കുന്നത് നിങ്ങൾ ആളുകളെ നിങ്ങൾ അവരെ പഠിപ്പിക്കുന്ന പുതിയ കാര്യം ചെയ്യാൻ അനുവദിക്കുക എന്നതാണ് അവർ ചെയ്യുന്ന ജോലി നിങ്ങൾ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലുപരിയായി ഇത് കൂടുതൽ ദൈർഘ്യമുള്ളതാണ് അതിനാൽ ഇത് ജോലിസ്ഥലത്തെ പരിശീലനമാണ് പക്ഷേ അത് കൂടുതൽ വ്യാപിച്ചിരിക്കുന്നു ഇന്ത്യയിൽ അപ്രന്റീസ്ഷിപ്പ് ഒരു ഔപചാരിക പദമാണ് കൂടാതെ 1961ലെ അപ്രന്റീസ് ആക്ട് അപ്രന്റീസുകളോട് അവർ പഠിക്കേണ്ട കാര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം ഉപദേഷ്ടാവ് എന്തുചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു ആശയം നൽകുന്നു അതിനാൽ ഒരാൾക്ക് ഈ പ്രവൃത്തിയിലൂടെ കടന്നുപോകാം അതിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട് അപ്രന്റീസ്ഷിപ്പിന്റെ ലക്ഷ്യങ്ങൾ ആദ്യം പുതിയ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അതിനാൽ ഒരു പുതിയ വൈദഗ്ദ്ധ്യം പഠിക്കുന്ന വ്യക്തി യഥാർത്ഥ തൊഴിൽ അന്തരീക്ഷത്തിൽ ഈ പുതിയ വൈദഗ്ദ്ധ്യം എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയേണ്ടതുണ്ട് കൂടാതെ ഈ അവസരം വ്യക്തിക്ക് നിരീക്ഷിക്കപ്പെടുന്ന മേൽനോട്ടത്തിലുള്ള പുതിയ പരിതസ്ഥിതിയിൽ പുതിയ വൈദഗ്ദ്ധ്യം ശ്രമിക്കാൻ അവസരം നൽകുന്നു നിരവധി ട്രേഡുകളിലും തൊഴിലുകളിലും സൈദ്ധാന്തികവും പ്രായോഗികവുമായ പരിശീലനത്തിലൂടെ പഴയ കഴിവുകൾ മെച്ചപ്പെടുത്താനും പരിഷ്കരിക്കാനുമുള്ള ഒരു വഴിയും ഇത് ട്രെയിനിക്ക് നൽകുന്നു അതിനാൽ അവർ അവരുടെ പഴയ കഴിവുകൾ എടുക്കുകയും ഈ പഴയ കഴിവുകൾ പുതിയ സാഹചര്യങ്ങളിൽ ഉപദേഷ്ടാവിന്റെ മാർഗ്ഗനിർദ്ദേശത്തിന് കീഴിൽ പ്രയോഗിക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യുന്നു മറ്റ് തരത്തിലുള്ള പരിശീലന പരിപാടികൾ ആദ്യം അനൌപചാരിക പഠനമാണ് ഒരു സ്ഥാപനത്തിനുള്ളിലെ അവസരങ്ങളും പ്രോത്സാഹനവും അനൌപചാരികമായ പഠനമാണ് ഞങ്ങൾ ആളുകളെ കാണുന്നു ഞങ്ങൾ ആളുകളെ നിരീക്ഷിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ മുതിർന്നവരെ കാണുന്നു ഞങ്ങൾ അവരെ നിരീക്ഷിക്കുന്നു കൂടാതെ അത് നമ്മളിൽ പുതിയ കഴിവുകൾ പഠിക്കുന്നതിൽ കലാശിക്കുന്നു ലോജിക്കൽ ഘട്ടങ്ങളിലൂടെയുള്ള ഒരു ഘട്ടം ഘട്ടമായുള്ള പഠന പ്രക്രിയയാണ് തൊഴിൽ നിർദ്ദേശ പരിശീലനം ഉദാഹരണത്തിന് നമ്മൾ ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്നെ പറ്റി സംസാരിക്കുമ്പോൾ ഓൺ ദി ജോബ് ട്രെയിനിങ്ങിൽ നിന്ന് വ്യത്യസ്തമാണ് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് തൊഴിൽ നിർദ്ദേശ പരിശീലനം എന്നത് ആളുകളെ ജോലികൾ സ്വന്തമായി ചെയ്യാൻ അവർക്ക് അവസരം നൽകാതെ ഒരു ജോലി ചെയ്യുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘട്ടങ്ങളെ കുറിച്ചുള്ള അവബോധമോ അല്ലെങ്കിൽ അവരെ പരിശീലിപ്പിക്കുന്നതോ ആണ് ജോലി പരിശീലന പരിപാടിയുടെ മറ്റൊരു മാർഗമാണ് പ്രഭാഷണങ്ങൾ പ്രഭാഷണങ്ങളെ പറ്റി പറയുമ്പോൾ അവ ഓൺ ദി ജോബ് ട്രൈനിംഗിനു വേണ്ടിയോ അല്ലെങ്കിൽ ട്രെയിനിങ് ടൂൾ ആയോ ഉപയോഗിക്കാനുള്ള ചില ടിപ്സ് ഇവയാണ് ഉറപ്പില്ലാതെ തെറ്റായ രീതീയിൽ തുടങ്ങരുത് അതിനാൽ നിങ്ങളുടെ ശ്രോതാക്കൾക്ക് വരാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകുക അതിനാൽ നിങ്ങളുടെ പ്രേക്ഷകരോട് ജാഗ്രത പുലർത്തുക പ്രേക്ഷകരുമായി കണ്ണിലൂടെ ഉള്ള സമ്പർക്കം പുലർത്തുക അതുപോലെ മുറിയിലുള്ള എല്ലാവർക്കും കേൾക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുക ഒരാളുടെ കൈകൾ ഒരാൾക്ക് നിയന്ത്രിക്കാൻ കഴിയണം ഒരു സ്ക്രിപ്റ്റിൽ നിന്നല്ല കുറിപ്പുകളിൽ നിന്ന് സംസാരിക്കുക അതിനാൽ പ്രേക്ഷകരെ നോട്ട്സ് എഴുതാൻ അനുവദിക്കുക നിങ്ങളുടെ മെറ്റീരിയൽ നന്നായി അറിയുക കൂടാതെ നിങ്ങളുടെ കുറിപ്പുകളിൽ നിന്നോ സ്ലൈഡുകളിൽ നിന്നോ നോക്കി കാര്യങ്ങൾ വായിക്കരുത് ഈ സമയത്ത് നിങ്ങൾക്ക് സദസ്സുമായി നേത്രബന്ധം സ്ഥാപിക്കാനും കാര്യങ്ങൾ വായിക്കുന്നതിനുപകരം നിങ്ങൾ യഥാർത്ഥത്തിൽ അവരുമായി സംസാരിക്കുകയാണെന്ന് അവർക്ക് തോന്നുന്ന രീതിയിൽ സംസാരിക്കാനും കഴിയണം ഒരു നീണ്ട പ്രസംഗം അഞ്ച് മിനിറ്റ് സംഭാഷണങ്ങളുടെ പരമ്പരയിലേക്ക് വിഭജിച്ച് പരിശീലിക്കുക മറ്റ് ചില തരത്തിലുള്ള പരിശീലന പരിപാടികൾ പ്രോഗ്രാം ചെയ്ത പഠനം അത് ഘട്ടം ഘട്ടമായുള്ള സ്വയം പഠന രീതിയാണ് അതിൽ വിവിധ ഭാഗങ്ങൾ ഉൾപ്പെടുന്നു ആദ്യത്തേത് പഠിതാവിന് ചോദ്യങ്ങളോ വസ്തുതകളോ പ്രശ്നങ്ങളോ അവതരിപ്പിക്കുക എന്നതാണ് അതിനാൽ പ്രോഗ്രാം ചെയ്ത പഠനം അർത്ഥമാക്കുന്നത് നിങ്ങൾ പഠിതാവിന് പ്രശ്നത്തെക്കുറിച്ച് വിമർശനാത്മകമായി ചിന്തിക്കാൻ അവസരം നൽകുന്നു എന്നാണ് അതിനാൽ വ്യക്തിയെ പ്രതികരിക്കാൻ അനുവദിക്കുമ്പോൾ നിങ്ങൾ ചോദ്യങ്ങളുടെ വസ്തുതകളോ പ്രശ്നങ്ങളോ പഠിതാവിന് അവതരിപ്പിക്കുന്നു അതിനാൽ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക പ്രതികരിക്കാൻ അവർക്ക് അവസരം നൽകുക തുടർന്ന് പഠിതാവിന് ഫീഡ്ബാക്ക് നൽകുക കൂടാതെ ഈ രീതിയിൽ നമുക്ക് ആളുകളെ പുതിയ കഴിവുകൾ പഠിപ്പിക്കാൻ കഴിയും മറ്റൊരു തരം പഠനമാണ് ഓഡിയോവിഷ്വൽ അടിസ്ഥാനമാക്കിയുള്ള പരിശീലനം പ്രത്യേകിച്ചും വിദൂര മോഡിലുള്ള ബഹുജന പരിശീലനത്തിന് അതിനാൽ നിങ്ങൾക്ക് വീഡിയോകൾ ഉണ്ടാകാം നിങ്ങൾക്ക് സ്ലൈഡുകൾ ഉണ്ടാകാം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഉണ്ടാകാം ഉദാഹരണങ്ങൾ ഉണ്ടാകാം എന്നാൽ ഒന്നിലധികം ഇന്ദ്രിയങ്ങളുടെ ഉപയോഗം ഉൾപ്പെടുന്ന എന്തും കമ്പ്യൂട്ടർ സ്ക്രീനിൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് വ്യക്തിക്ക് കാണാൻ കഴിയും അതുപോലെ കേൾക്കാനും ഒരു തരത്തിൽ പ്രവർത്തനത്തിൽ ഇടപെടാനും കഴിയും പിന്നെ ഞങ്ങൾക്ക് വെസ്റ്റിബ്യൂൾ പരിശീലനം ഉണ്ട് ട്രെയിനികൾ ജോലിസ്ഥലത്ത് ഉപയോഗിക്കുന്ന യഥാർത്ഥ അല്ലെങ്കിൽ സിമുലേറ്റഡ് ഉപകരണങ്ങളിൽ പഠിക്കുക അതിനാൽ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞത് പോലെയാണ് എങ്ങനെ വിമാനം പറത്തണമെന്ന് ആളുകളെ പഠിപ്പിക്കുമ്പോൾ അവ ഒരു വെസ്റ്റിബ്യൂളിൽ സ്ഥാപിച്ചിരിക്കുന്നു ചിലപ്പോൾ അതിന്റെ ഒരു ഭാഗം കമ്പ്യൂട്ടർ വീഡിയോ ഗെയിമിന് സമാനമായ എന്തെങ്കിലും ഉപയോഗിച്ച് വിമാനം എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പഠിക്കുന്നു കൂടാതെ മറ്റൊരു ഭാഗം ഒരു യഥാർത്ഥ വിമാനം ചലിക്കുന്നതുപോലെ ചലിക്കുന്ന ഒരു ഭൌതിക അറയിൽ വെച്ചിരിക്കുന്നു എന്നതാണ് അത് ഒരു യഥാർത്ഥ സ്പേസ് ഷട്ടിൽ നീങ്ങുന്നത് പോലെ നീങ്ങുന്നു പ്രത്യേകിച്ച് ബഹിരാകാശയാത്രികർക്ക് വെസ്റ്റിബ്യൂൾ പരിശീലനം അവരുടെ പരിശീലനത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് അതിനാൽ കുറഞ്ഞ ഗുരുത്വാകർഷണത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർ പഠിക്കേണ്ടതുണ്ട് ഗുരുത്വാകർഷണമില്ലാത്ത സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർ പഠിക്കേണ്ടതുണ്ട് അതിനാൽ അവരെ യഥാർത്ഥത്തിൽ ഒരു മുറിയിലോ അല്ലെങ്കിൽ അടച്ചിട്ട സ്ഥലത്തോ പാർപ്പിച്ചിരിക്കുന്നു അത് അവർക്ക് ഒരു സമാനമായ അടച്ച സ്ഥലത്ത് ആയിരിക്കുന്നതിന്റെ ശാരീരിക അനുഭവം നൽകുന്നു പക്ഷേ ആർക്കും അവരെ സഹായിക്കാൻ കഴിയാത്ത ഒരു സ്ഥലം അതിനാൽ അത് അവരെ പരിചിതമാകാൻ സഹായിക്കുന്നു അതിനാൽ അതാണ് വെസ്റ്റിബ്യൂൾ പരിശീലനം വൺ വേ ആയ ടെലിട്രെയിനിംഗും ഇന്ററാക്ടീവ് ആയ വീഡിയോ കോൺഫറൻസിംഗും ജീവനക്കാരെ പരിശീലിപ്പിക്കുന്നതിനുള്ള മറ്റൊരു മാർഗമാണ് അതിനാൽ ടെലി പരിശീലനം എന്നത് ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ ചെയ്യുന്നതെല്ലാമാണ് ഞാൻ സംസാരിക്കുന്നു നിങ്ങൾ കേൾക്കുന്നു വീഡിയോ കോൺഫറൻസിങ് കാലാകാലങ്ങളിൽ നടക്കും അതിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഞാൻ ഓൺലൈനിൽ ഉണ്ടാകും അതിനാൽ മറ്റ് തരത്തിലുള്ള പരിശീലന പരിപാടികൾ ഇലക്ട്രോണിക് പെർഫോമൻസ് സപ്പോർട്ട് സിസ്റ്റം ആണ് അത് ട്രെയിനിങ് ഡോക്യുമെന്റേഷൻ ഫോൺ സപ്പോർട്ട് എന്നിവ ഓട്ടോമേറ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടർവത്കൃത ഉപകരണങ്ങളാണ് അതിനാൽ ഇത് മറ്റൊരു തരത്തിലുള്ള പരിശീലന പരിപാടിയാണ് ഇതൊരു സങ്കീർണ്ണമായ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡോക്യുമെന്റുകളുടെയും വായനാ സാമഗ്രികളുംടെയും മിശ്രിതമാണ് ഒപ്പം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഫോണിൽ ആരോ ഉണ്ട് ജോബ് എയ്ഡ് എന്നത് EPSS ന്റെ ഭാഗമോ ഒരു രീതിയോ ആണ് അതിൽ തൊഴിലാളികൾക്കായുള്ള ജോലിസ്ഥലത്ത് ലഭ്യമായ നിർദ്ദേശങ്ങളുടെ ഡയഗ്രമുകളോ അല്ലെങ്കിൽ സമാനമായ രീതികളോ ഉള്ള തൊഴിൽ സഹായമാണ് അതിനാൽ അത് മറ്റൊരു തരം ഇലക്ട്രോണിക് പ്രകടന പിന്തുണാ സംവിധാനമാണ് നിങ്ങൾക്കു ആവശ്യമുള്ളപ്പോൾ ഈ മെറ്റീരിയലെല്ലാം സമയത്തിന് മുമ്പായി നിങ്ങൾക്ക് അയച്ചുതരും കൂടാതെ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം അതിലൂടെ പോകാം മറ്റൊരു തരത്തിലുള്ള പരിശീലന പരിപാടി കമ്പ്യൂട്ടർ അധിഷ്ഠിത പരിശീലനമാണ് അത് പ്രോഗ്രാം ചെയ്ത നിർദ്ദേശമാണ് കമ്പ്യൂട്ടർ നിയന്ത്രിത നിർദ്ദേശം നിങ്ങൾ കാര്യങ്ങൾ ശരിയായി ചെയ്യുന്നില്ലെന്ന് കമ്പ്യൂട്ടർ നിങ്ങളോട് പറയുന്നു അതിനാൽ അത് കമ്പ്യൂട്ടറിലെ പ്രോഗ്രാമിലേക്ക് നിർമ്മിച്ചതാണ് കൂടാതെ പ്രോഗ്രാം തന്നെ നിങ്ങളെ നയിക്കുന്നു കമ്പ്യൂട്ടർ അധിഷ്ഠിത പരിശീലനത്തിന്റെ മറ്റൊരു രീതിയാണ് ഇന്റലിജന്റ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ Intelligent computer assisted instruction ഇന്റലിജന്റ് ട്യൂട്ടറിംഗ് സിസ്റ്റം എന്നത് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരിശീലനത്തിന്റെ മറ്റൊരു രീതിയാണ് അവിടെ സിസ്റ്റം തന്നെ നിങ്ങളെ ട്യൂട്ടർ ചെയ്യുകയും നിങ്ങളുടെ പ്രോഗ്രാമിലൂടെ കടന്നുപോകാൻ സഹായിക്കുകയും ചെയ്യുന്നു സിമുലേഷനുകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ സമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു ഒപ്പം വെർച്വൽ റിയാലിറ്റി എന്നത് നിങ്ങൾക്ക് ഓൺലൈനിൽ സമാനമായ അന്തരീക്ഷം നൽകുന്നു കൂടാതെ നിങ്ങൾ വിവിധ സാഹചര്യങ്ങൾ പരീക്ഷിക്കുന്നു അതാണ് വെർച്വൽ റിയാലിറ്റി പരിശീലനം അനുകരണ പഠനം വീണ്ടും പല തരത്തിലാകാം നിങ്ങൾക്ക് വെർച്വൽ റിയാലിറ്റി തരം ഗെയിമുകൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ഘട്ടം ഘട്ടമായുള്ള ആനിമേറ്റഡ് ഗൈഡ് ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ചോദ്യങ്ങളും ഡിസിഷൻ ട്രീകളും ഉള്ള ഒരു സാഹചര്യവും ഓവർലേയിംഗ് സിമുലേഷനും ഉണ്ടാകാം അതിനാൽ സിമുലേഷൻ ഉണ്ട് കൂടാതെ ആ സിമുലേഷനുമായി ബന്ധപ്പെട്ട വിവിധ സാഹചര്യങ്ങളുണ്ട് ഫോട്ടോകളും വീഡിയോകളും ഉള്ള ഓൺലൈൻ റോൾ പ്ലേ അവിടെ ഉണ്ടാകാം അതിനാൽ നിങ്ങൾ ഓർഗനൈസേഷനിൽ വ്യത്യസ്ത വേഷങ്ങൾ ചെയ്യുന്നു കൂടാതെ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫുകൾ ഉണ്ടായിരിക്കാം കൂടാതെ നിങ്ങൾ അടുത്തതായി എന്താണ് ചെയ്യേണ്ടതെന്ന് മനസിലാക്കാൻ സഹായിക്കുന്ന വീഡിയോകൾ നിങ്ങൾക്കുണ്ടാകും ഇന്ററാക്ടീവ് അഭ്യർത്ഥനകളോടെയുള്ള സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെയുള്ള സോഫ്റ്റ്വെയർ പരിശീലനം അവിടെ ഉണ്ടാകാം പിന്നെ ഇന്റർനെറ്റ് അധിഷ്ഠിത പരിശീലനം ഉണ്ടാകാം ഇതിൽ നിങ്ങൾക്ക് പഠന പോർട്ടലുകൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് പഠന മാനേജ്മെന്റ് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കാം ഒന്നിലധികം റിമോട്ട് പഠിതാക്കളെ അവരുടെ PC കളോ ലാപ്ടോപ്പുകളോ ഉപയോഗിച്ച് തത്സമയ ഓഡിയോ വിഷ്വൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ പ്രാപ്തമാക്കുന്നതിന് പ്രത്യേക സഹകരണ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ഒരു വെർച്വൽ ക്ലാസ് റൂം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം കൂടാതെ നിങ്ങൾക്ക് എഴുത്തുപരീക്ഷയിലൂടെ ആശയവിനിമയം നടത്താനും പങ്കിട്ട ഉള്ളടക്കം വഴി പഠിക്കാനും കഴിയും അതിനാൽ വിവിധ തരത്തിലുള്ള പരിശീലന രീതികൾ ഇന്റർനെറ്റിൽ പോലും നിങ്ങൾക്ക് വിവിധ പോർട്ടലുകൾ ഉണ്ട് നിങ്ങൾക്ക് വിവിധ വെബ്സൈറ്റുകൾ ഉണ്ട് നിങ്ങൾക്ക് സിസ്റ്റങ്ങളുണ്ട് ഉദാഹരണത്തിന് ഇന്ത്യയിൽ നിങ്ങൾക്ക് ബ്ലാക്ക്ബോർഡ് എന്ന് വിളിക്കപ്പെടുന്ന ഒന്ന് ഉണ്ട് അത് മറ്റൊരു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റമാണ് അവിടെ നിങ്ങൾക്ക് വിവരത്തിന്റെ ഒരു ഭാഗം ബന്ധപ്പെട്ട അധ്യാപകൻ അപ്ലോഡ് ചെയ്യുന്ന മെറ്റീരിയലിലൂടെ നൽകുന്നു അപ്പോൾ ഒരു വീഡിയോ ഘടകം ഉണ്ടാകാം നിങ്ങളുടെ പ്രതികരണങ്ങൾ അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് ഒന്നുകിൽ ബ്ലോഗുകൾ വഴിയോ മറ്റെന്തെങ്കിലുമോ വഴി ചോദ്യങ്ങൾ ചോദിക്കാം അതിനാൽ വിവിധ മാർഗങ്ങളിൽ ഞങ്ങളുടെ ജീവനക്കാരെ പരിശീലിപ്പിക്കാം ആജീവനാന്ത പഠനം കുറെയേറെ ഓർഗനൈസേഷനുകൾ കുറച്ച് മുമ്പ് ആരംഭിച്ച മറ്റൊരു സമ്പ്രദായമാണ് കൂടാതെ അവർ ഇതിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ആജീവനാന്ത പഠനത്തിന്റെ ആവശ്യകത അവർ ഊന്നിപ്പറയുന്നു ആജീവനാന്ത പഠന അവസരങ്ങളിലൂടെ അവർ തങ്ങളുടെ ജീവനക്കാർക്ക് സ്ഥാപനവുമായുള്ള കാലാവധിയിൽ തുടർച്ചയായ പഠനാനുഭവങ്ങൾ നൽകുന്നു അവർക്ക് ആവശ്യമായ കഴിവുകൾ പഠിക്കാനും അവരുടെ ജോലികൾ ചെയ്യാനും അവരുടെ ചക്രവാളങ്ങൾ വികസിപ്പിക്കാനും അവസരമുണ്ട് എന്ന് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് അതിനാൽ ഒരു സ്ഥാപനം ആജീവനാന്ത പഠനത്തിന് പ്രതിജ്ഞാബദ്ധമാണെങ്കിൽ അവർ ചില പരിശീലന പരിപാടികൾ ചില റിഫ്രഷർ കോഴ്സുകൾ എപ്പോഴും നടക്കുന്നു എന്ന് ഉറപ്പാക്കുന്നു കൂടാതെ ആളുകൾ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം നൽകുന്നു കൂടാതെ അത് ലഭ്യമാണ് ഒരു നിശ്ചിത സമയത്തിന് ശേഷം ഈ പ്രോഗ്രാമുകളിൽ പോയി പങ്കെടുക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു അത് വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ വർഷത്തിൽ രണ്ടുതവണ ആയിരിക്കാം അതിനാൽ സംഘടനയുടെ ശ്രമങ്ങളിലൂടെ ആളുകൾ സ്വയം പ്രചോദിതരായി നിലകൊള്ളുന്നു തുടർന്ന് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് കമ്പനികളിൽ ഞങ്ങൾക്ക് ശബ്ദ ഉച്ചാരണ പരിശീലനവും ഉണ്ട് അത് മറ്റൊരു തരത്തിലുള്ള പരിശീലന പരിപാടിയാണ് ശബ്ദ ഉച്ചാരണ പരിശീലനത്തിന്റെ വലിയ നേട്ടം ഒരാൾക്ക് ഒരു വലിയ ജനക്കൂട്ടത്തിന് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കാൻ പഠിക്കാൻ കഴിയും എന്നതാണ് ഞാൻ സമാനമായ വളരെ ഹ്രസ്വമായ ഒരു കോഴ്സെന്ന് പറയാനാവില്ല പക്ഷേ സംസാരിക്കുമ്പോൾ എങ്ങനെ വേഗത കുറയ്ക്കണമെന്ന് എന്നെ പഠിപ്പിച്ച എന്റെ പ്രൊഫസർമാരിൽ ഒരാളുമായി ഒരു ചർച്ചയിലൂടെ കടന്നുപോയി കൂടാതെ അത് എന്റെ അധ്യാപനത്തിൽ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരാൾ പറയും എന്തിന് നമ്മുടെ ശബ്ദമോ ഉച്ചാരണമോ മാറ്റണം നിങ്ങൾ ആളുകളുമായി ഇടപഴകുമ്പോൾ ഇത് സഹായിക്കുന്നു കഴിയുന്നത്ര ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ സംസാരിക്കാൻ ഇത് സഹായിക്കുന്നു അതിനാൽ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്ന വാക്കുകൾ പൂർത്തിയാക്കുന്നത് പോലുള്ള കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു ശബ്ദ ഉച്ചാരണ പരിശീലനത്തിൽ അല്ലെങ്കിൽ മിക്ക ആളുകൾക്കും മനസ്സിലാകുന്ന ഉച്ചാരണ രീതിയിൽ ഒരാൾ സംസാരിക്കുമ്പോൾ അതിനാൽ നിങ്ങൾ ഒരു വാക്ക് ആരംഭിക്കുകയും വാക്ക് ശരിയായി അവസാനിപ്പിക്കുകയും നിങ്ങൾ പതുക്കെ സംസാരിക്കുകയും ചെയ്താൽ ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതുവരെ ഒരു വാക്ക് കേട്ടിട്ടില്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ ഉച്ചരിക്കാൻ നമുക്ക് തോന്നുന്നു കൂടാതെ വാക്കുകൾ ശരിയായി ഉച്ചരിക്കുന്നത് എത്ര പ്രധാനമാണെന്ന് ഒരാൾ ആ നിമിഷം മനസ്സിലാക്കുന്നു അതിനാൽ അത് ഏറ്റെടുക്കുകയോ സംഘടനകൾ മുഖേന നടത്തുകയോ ചെയ്യാം തുടർന്ന് ഞങ്ങൾക്ക് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ ഉണ്ട് അവ അറിവ് പകർന്നു നൽകുന്നതിലൂടെയും മനോഭാവം മാറ്റുന്നതിലൂടെയും കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെയും മാനേജർ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് പിന്നെ ഇതിൽ നമ്മൾ എന്ത് ചെയ്യും കമ്പനിയുടെ തന്ത്രപരമായ ആവശ്യങ്ങൾ ഞങ്ങൾ വിലയിരുത്തുന്നു മാനേജരുടെ നിലവിലെ പ്രകടനം ഞങ്ങൾ വിലയിരുത്തുന്നു കൂടാതെ ഞങ്ങൾ മാനേജർമാരെ വികസിപ്പിക്കുന്നു ഒപ്പം നിലവിലുള്ള മാനേജീരിയൽ സ്റ്റാഫ് അവതരിപ്പിക്കുന്ന റോളുകൾ വന്ന് ഏറ്റെടുക്കുന്ന തുടർച്ചയായ റോളുകൾ അല്ലെങ്കിൽ ആളുകൾക്കായി ഞങ്ങൾ ആസൂത്രണം ചെയ്തു മറ്റൊരു മാനേജീരിയൽ ഓൺ ദി ജോബ് ട്രെയിനിങ് ആണ് ജോബ് റൊട്ടേഷൻ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ ബിസിനസ്സിനെക്കുറിച്ചുള്ള അവരുടെ ധാരണ വിശാലമാക്കുന്നതിനും അവരുടെ കഴിവുകൾ പരീക്ഷിക്കുന്നതിനുമായി ജോബ് റേറ്റേഷൻ ആളുകളെ ഒരു ഡിപ്പാർട്മെന്റ് നിന്ന് മറ്റൊന്നിലേക്കു സ്ഥാനംമാറ്റുന്നു നാമെല്ലാവരും വിവിധ പ്രവർത്തനങ്ങളിൽ പരിശീലനം നേടിയവരാണ് ഇപ്പോൾ ജോലി റൊട്ടേഷനിൽ സംഭവിക്കുന്നത് ഒരു നിശ്ചിത സമയത്തിന് ശേഷം ചില ജീവനക്കാരെ അതേ സ്ഥാപനത്തിനുള്ളിൽ തന്നെ ഒരു പുതിയ ഭാഗത്തേക്കോ മറ്റൊരു വകുപ്പിലേക്കോ കൊണ്ടുപോകുന്നു എന്നതാണ് കൂടാതെ ആ വകുപ്പിനുള്ളിൽ ആ ഓർഗനൈസേഷനിൽ പ്രകടനം നടത്താൻ അവസരം നൽകുന്നു കൂടാതെ ഈ ഘട്ടത്തിൽ അവർക്ക് നിലവിലെ ജീവനക്കാർ ചെയ്യുന്നത്ര പെർഫോമൻസ് ചെയ്യാൻ സാധിക്കില്ല എന്നത് അവരുടെ സ്കിൽ അനുസരിച്ചു അംഗീകരിക്കുന്നു കാരണം അവർക്ക് സമാനമായ പരിശീലനമോ ഓറിയന്റേഷനോ ഇല്ലായിരിക്കാം പക്ഷേ ആ ഘട്ടത്തിൽ കേവല സാമാന്യബുദ്ധിയുടെ ഉപയോഗത്തിലൂടെയും എന്തിന്റെയെങ്കിലും പ്രയോഗത്തിലൂടെയും അവർക്ക് സ്വയം തെളിയിക്കാനുള്ള അവസരം നൽകപ്പെടുന്നു കൂടാതെ ഇത് കുറച്ച് പഠിക്കാൻ ആളുകളെ സഹായിക്കുന്നു അതിനാൽ അതാണ് ജോലി റൊട്ടേഷൻ കോച്ചിംഗും അണ്ടർസ്റ്റഡി സമീപനവും അപ്രന്റീസ്ഷിപ്പിന് സമാനമാണ് അവിടെ ഒരാൾ ഒരു മുതിർന്ന ഉപദേഷ്ടാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ മെൻറ്റർനോട് സംസാരിക്കാനുള്ള ആവശ്യം വരുമ്പോൾ സംസാരിക്കാനുള്ള അവസരം ഒരാൾക്ക് നൽകുന്നു അതിനാൽ അത് മറ്റൊരു വഴിയാണ് പിന്നെ നമുക്ക് ആക്ഷൻ ലേണിംഗ് ഉണ്ട് ആക്ഷൻ ലേണിംഗ് മാനേജർമാർക്കും മറ്റുള്ളവർക്കും അവരുടേതല്ലാത്ത വകുപ്പുകളിൽ ജോലി ചെയ്യാനും അവരുടെ പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാനും പരിഹരിക്കാനും സമയം അനുവദിച്ചു നൽകുന്നു അതിനാൽ ആക്ഷൻ ലേണിംഗ് ജോലി റൊട്ടേഷന് സമാനമാണ് ജോബ് റോട്ടാഷന്റെ അർത്ഥം എന്തെന്നാൽ പല ജോലികൾ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നു എന്നതാണ് ആക്ഷൻ ലേണിംഗിൽ മറ്റൊരു ജോലി മറ്റൊരു വകുപ്പിന്റെ പ്രവർത്തനം നിങ്ങൾക്ക് മനസിലാക്കാൻ അവസരം നൽകുന്നു തുടർന്ന് നിർദ്ദേശങ്ങൾ നൽകുക കൂടാതെ ഇതിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഞങ്ങൾക്ക് 6 മുതൽ 8 ആഴ്ച വരെയുള്ള ചട്ടക്കൂട് ഘട്ടമുണ്ട് അതിൽ ജോലി ആസൂത്രണം ചെയ്യുകയും ഡാറ്റ ശേഖരിക്കുകയും ചെയ്യുന്നു തുടർന്ന് ഞങ്ങൾക്ക് 2 മുതൽ 3 ദിവസത്തെ ആക്ഷൻ ഫോറം ഉണ്ട് അവിടെ മുകളിൽ ലിസ്റ്റുചെയ്തിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള യഥാർത്ഥ രൂപകല്പന അല്ലെങ്കിൽ ആക്ഷൻ പ്ലാനുകൾ ഏറ്റെടുക്കുന്നു തുടർന്ന് ഞങ്ങൾക്ക് അക്കൌണ്ടബിലിറ്റി സെഷനുകൾ ഉണ്ട് അതിൽ ചെയ്ത എല്ലാ ജോലികളുടെയും അവലോകനം നടത്തുന്നു ഓഫ് ദി ജോബ് മാനേജ്മന്റ് ട്രെയിനിങ്ങും ടെവലപ്മെന്റ് പ്രോഗ്രാമുകളും അല്ലെങ്കിൽ ടെക്നിക്സും അതിനാൽ ഈ ജോലികളിൽ നിന്ന് മാറിനിന്ന് നമുക്ക് പുതിയ ജോലികളെക്കുറിച്ച് കൂടുതലറിയാൻ കഴിയുന്ന വിവിധ മാർഗങ്ങൾ ആദ്യം കേസ് സ്റ്റഡി രീതിയാണ് ഇത് ഒരു ഓർഗനൈസേഷണൽ പ്രശ്നത്തിന്റെ രേഖാമൂലമുള്ള വിവരണത്തോടെ ഒരു ട്രെയിനിയെ അവതരിപ്പിക്കുന്നു കൂടാതെ ട്രെയിനി സാഹചര്യം വിശകലനം ചെയ്യുകയും കേസ് വിശകലനം ചെയ്യുകയും പ്രശ്നം നിർണ്ണയിക്കുകയും കണ്ടെത്തലുകളും പരിഹാരങ്ങളും മറ്റ് ട്രെയിനികളുമായി ചർച്ച ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ കേസ് പഠനങ്ങൾ എഴുതപ്പെടുന്നു തുടർന്ന് ഈ കേസ് പഠനങ്ങൾ ട്രെയിനികളുമായി പങ്കിടുന്നു കൂടാതെ ട്രെയിനികൾ അവരുടെ പരിഹാരങ്ങളും ഈ കേസുകളെക്കുറിച്ചുള്ള അവരുടെ ധാരണയും അവതരിപ്പിക്കുന്നു മറ്റൊന്ന് മാനേജ്മെന്റ് ഗെയിമുകളാണ് അവ ഓൺലൈനിൽ ലഭ്യമായ സിമുലേറ്റഡ് മാർക്കറ്റ്പ്ലെയ്സ് സാഹചര്യങ്ങളാണ് തുടർന്ന് പരിശീലനാർത്ഥികളെ ഓർഗനൈസേഷന് പുറത്ത് സെമിനാറുകൾക്കും പ്രഭാഷണങ്ങൾക്കും അയക്കാം അല്ലെങ്കിൽ ഉന്നതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഖേനയുള്ള സർവ്വകലാശാലാ സംബന്ധിയായ പ്രോഗ്രാമുകൾ ഇൻ ഹൌസ് പരിശീലന പരിപാടികൾ എന്നിവയും നമുക്ക് ഉണ്ടായിരിക്കാം ഐഐടിയിൽ ഞങ്ങൾ കാലാകാലങ്ങളിൽ ചെയ്യുന്ന കാര്യമാണിത് ഞങ്ങൾക്ക് തുടർ വിദ്യാഭ്യാസ പരിപാടികൾ ഉണ്ട് ഞങ്ങൾ വ്യത്യസ്ത ഓർഗനൈസേഷനുകളിലേക്ക് പോകുകയും അവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്കായി പ്രത്യേക പ്രോഗ്രാമുകൾ നൽകുകയും ചെയ്യുന്നു നമുക്ക് റോൾ പ്ലേയിംഗും ഉണ്ട് റോൾ പ്ലേയിംഗ് എന്നത് റിയലിസ്റ്റിക് സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണ് അവിടെ ട്രെയിനികൾ ആ സാഹചര്യത്തിൽ നിർദ്ദിഷ്ട വ്യക്തികളുടെ ഭാഗങ്ങൾ ഏറ്റെടുക്കുകയും തുടർന്ന് വ്യത്യസ്ത ആളുകളുടെ വീക്ഷണകോണിൽ നിന്ന് പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്നു ഞങ്ങൾക്ക് പെരുമാറ്റ മോഡലിംഗ് ഉണ്ട് അതിനാൽ മോഡലിംഗ് എന്നത് അർത്ഥമാക്കുന്നത് കാര്യങ്ങൾ വ്യത്യസ്ത വീക്ഷണങ്ങളിൽ നിന്ന് കാണാൻ ശ്രമിക്കുന്നു എന്നാണ് പരിശീലക മോഡലുകൾ പരിശീലകനെ മാതൃകയാക്കിയുള്ള റോൾ പ്ലേയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ട്രെയിനികളെ കാണിക്കുന്നു റോൾ പ്ലേയിംഗ് എന്നാൽ പരിശീലനാർത്ഥികൾക്ക് അവരോട് ചെയ്യാൻ ആവശ്യപ്പെട്ടത് യഥാർത്ഥത്തിൽ ചെയ്യാൻ അവസരം നൽകുന്നു പരിശീലനാർത്ഥികൾക്കുള്ള ഫീഡ്ബാക്കും റീഇൻഫോഴ്സ്മെന്റും ആണ് സാമൂഹിക ബലപ്പെടുത്തൽ അതിനാൽ പരിശീലനം നേടിയവർ ഇതിനകം തന്നെ വേഷം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർ അവരുടെ പരിശീലനം അനുകരിച്ചിട്ടുണ്ട് തുടർന്ന് പരിശീലകനിൽ നിന്ന് മാത്രമല്ല അവരുടെ സഹപ്രവർത്തകരിൽ നിന്നും അവർക്ക് ഫീഡ്ബാക്ക് ലഭിക്കും പരിശീലനത്തിന്റെ കൈമാറ്റം ട്രെയിനികൾ പരിശീലനം യഥാർത്ഥ ജീവിതത്തിലേക്ക് പ്രയോഗിക്കുന്നിടത്താണ് അതിനാൽ അവർ പഠിച്ചതെല്ലാം യഥാർത്ഥ ജീവിതത്തിൽ പ്രയോഗിക്കാൻ അവർക്ക് അവസരം നൽകുന്നു തുടർന്ന് അവർ പഠിച്ചതെന്തിനെയും കുറിച്ചുള്ള അവബോധം പരീക്ഷിക്കപ്പെടുന്നു കോർപ്പറേറ്റ് സർവകലാശാലകൾ ഞങ്ങൾക്ക് ആഭ്യന്തര വികസന കേന്ദ്രങ്ങളുണ്ട് ഉദാഹരണത്തിന് ടാറ്റയ്ക്ക് ടാറ്റ മാനേജ്മെന്റ് പരിശീലന കേന്ദ്രമുണ്ട് ടി അതിനാൽ അവർക്ക് അവരുടെ സ്വന്തം ജീവനക്കാർക്കായി അവരുടേതായ പരിശീലന കേന്ദ്രങ്ങളുണ്ട് ഞങ്ങൾക്ക് എക്സിക്യൂട്ടീവ് കോച്ചുകൾ ഉണ്ട് അത് പുറത്ത് നിന്നുള്ള കൺസൾട്ടന്റുകളാണ് ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് മുതലായവ പോലുള്ള ജോലിസ്ഥലത്തെ മാനേജ്മെന്റ് പരിശീലനത്തിനും വികസനത്തിനും ആളുകളെ സഹായിക്കുന്ന പ്രൊഫഷണൽ അസോസിയേഷനുകൾ ഞങ്ങൾക്കുണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പരിശീലന പരിപാടി എങ്ങനെ സൃഷ്ടിക്കും പരിശീലന ലക്ഷ്യങ്ങൾ സജ്ജീകരിക്കുക എന്നതാണ് ഇവിടെ ആദ്യപടി രണ്ടാമത്തെ ഘട്ടം വിശദമായ തൊഴിൽ വിവരണങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ആവശ്യങ്ങളുടെ വിശകലനം പ്രധാനമാണ് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് പ്രധാനമാണ് അവ ഉപയോഗിച്ച് നിങ്ങൾ വിശദമായ തൊഴിൽ വിവരണം എടുക്കുകയും ഈ തൊഴിൽ വിവരണങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുക തുടർന്ന് നിങ്ങൾ ഒരു സംക്ഷിപ്ത ടാസ്ക് അനാലിസിസ് റെക്കോർഡ് ഫോം വികസിപ്പിച്ചെടുക്കുന്നു അവിടെ ഓർഗനൈസേഷനെ അല്ലെങ്കിൽ പരിശീലനം നേടുന്നവരെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ അല്ലെങ്കിൽ അവരെ അവരുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ സഹായിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടതെന്തും ലിസ്റ്റ് ചെയ്യുന്നു ഒരു തൊഴിൽ നിർദ്ദേശ ഷീറ്റ് വികസിപ്പിക്കുക തുടർന്ന് ജോലികൾക്കായുള്ള പരിശീലന പരിപാടി സമാഹരിക്കുക അതിനാൽ ഒരാൾ ശ്രദ്ധിക്കേണ്ട ചില ഘട്ടങ്ങൾ ഇവയാണ് കൂടാതെ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി അറിയേണ്ടത് വളരെ പ്രധാനമാണ് അതിനാൽ യഥാർത്ഥ പരിശീലന പരിപാടിയുടെ ആസൂത്രണവും ഷെഡ്യൂളിംഗും പ്രവർത്തന പദ്ധതി വിശദമാക്കുന്നതും പോലെ ആവശ്യങ്ങളുടെ വിശകലനം വളരെ പ്രധാനമാണ് പരിശീലന പരിപാടികൾ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് നിങ്ങൾ ഒരു പരിശീലന പരിപാടി നടത്തി നിങ്ങൾ അത് അവതരിപ്പിച്ചു ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പരിശീലന പരിപാടികൾ വിലയിരുത്തുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾക്ക് അളക്കാൻ കഴിയുന്ന പരിശീലന ഇഫക്റ്റുകൾ ഞങ്ങൾ പട്ടികപ്പെടുത്തേണ്ടതുണ്ട് ആദ്യത്തേത് പ്രതികരണമാണ് അവർക്ക് നൽകിയ പരിശീലനത്തോട് ജീവനക്കാരുടെ പ്രതികരണം എന്താണ് മറ്റൊന്ന് പഠനമാണ് അവർ എത്രമാത്രം പഠിച്ചു അതിനാൽ നിങ്ങൾ ഇത് എങ്ങനെ വിലയിരുത്തും പിന്നെ സ്വഭാവത്തിൽ മാറ്റം കൂടാതെ ട്രെയിനികൾ പഠിച്ചതെല്ലാം ഓർഗനൈസേഷനിൽ ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടാകുന്ന വരുമാനത്തിന്റെ കാര്യത്തിലുള്ള ആത്യന്തിക ഫലങ്ങളും ഈ ഇഫക്റ്റുകൾ അളക്കാൻ ഒരാൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ പരിശീലനാർത്ഥികൾക്ക് പ്രത്യേക വൈദഗ്ദ്ധ്യം അറിവ് അല്ലെങ്കിൽ പ്രകടനം എന്നിവ നേടിയിട്ടുണ്ടോ മാറ്റം ശരിക്കും സംഭവിച്ചോ അതെ എങ്കിൽ അത് സംഭവിച്ചെങ്കിൽ നിങ്ങൾ എന്താണ് കണ്ടത് മാറ്റം സംഭവിച്ചതായി നിങ്ങൾക്ക് എങ്ങനെ അറിയാം മാറ്റം പരിശീലനം മൂലമാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ മാറ്റം സംഘടനാ ലക്ഷ്യങ്ങളുടെ നേട്ടവുമായി ക്രിയാത്മകമായി ബന്ധപ്പെട്ടതാണോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കെങ്ങനെ അറിയാം അവർ ശരിക്കും സംഭാവന ചെയ്യുന്നുണ്ടോ ഔട്ട്പുട്ട് നൽകിയിട്ടുള്ള പരിശീലനത്തിന് ആനുപാതികമാണോ അതോ അതിനനുസരിച്ചാണോ ഒരേ പരിശീലന പരിപാടിയിൽ പുതിയ പങ്കാളികൾക്കൊപ്പം സമാനമായ മാറ്റങ്ങൾ സംഭവിക്കുമോ നിങ്ങൾക്ക് പുതിയ ആളുകളെ ലഭിക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ അതേ ഫലങ്ങൾ കാണിക്കുമോ ഉവ്വോ ഇല്ലയോ അതിനുശേഷം പരിശീലനം ഫലപ്രദമാണോ അല്ലയോ എന്ന് ഒരാൾക്ക് തീരുമാനിക്കാം അതുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കാം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചതിന് വളരെ നന്ദി കൂടാതെ അടുത്ത ക്ലാസിൽ മറ്റൊരു വിഷയം എടുക്കും